ഈ പാഠത്തിൽ റെസിസ്റ്റീവ് നെറ്റ്വർക്കിലെ റെസിപ്രൊസിറ്റി പ്രത്യാഘാതങ്ങൾ നമ്മൾ പരിഗണിക്കും നമ്മൾ റെസിപ്രൊസിറ്റി പ്രസ്താവിക്കുകയും രണ്ട് പോർട്ട് പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ അത് ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ട് പോർട്ട് പാരാമീറ്ററുകൾ യഥാർത്ഥത്തിൽ ചില വ്യവസ്ഥകൾക്കനുസരിച്ച് ചില വൈദ്യുത അളവുകളുടെയും മറ്റ് ചില വൈദ്യുത അളവുകളുടെയും അനുപാതത്തെ സൂചിപ്പിക്കുന്നു ഏതെങ്കിലും പ്രത്യേക രണ്ട് പോർട്ട് പാരാമീറ്റർ സെറ്റുകളെ കുറിച്ച് സംസാരിക്കാതെ തന്നെ നമുക്ക് റെസിപ്രൊസിറ്റിയെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഈ പാഠത്തിൽ രണ്ട് പോർട്ട് പാരാമീറ്ററുകളിൽ ഓരോന്നും എന്ത് റെസിപ്രൊസിറ്റിയുമാണ് സൂചിപ്പിക്കുന്നതെന്നും അത് എങ്ങനെ ഉപയോഗപ്രദമാണെന്നും നോക്കാം അതിനാൽ നമുക്ക് ആദ്യം y പാരാമീറ്ററുകൾ എടുക്കാം y12 y21 എന്ന് പറയുന്നു എനിക്ക് ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്കും രണ്ട് പോർട്ടുകളും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ് ഞാൻ V1 നെ ആദ്യ വശവുമായി ബന്ധിപ്പിക്കുകയും രണ്ടാമത്തേത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും ചെയ്യാം ഇവിടെ കറന്റ് നിർവചനത്തിൽ നിന്ന് y21 × V1 ആയിരിക്കും മറുവശത്ത് ഞാൻ V2 നെ രണ്ടാമത്തെ പോർട്ടുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ആദ്യത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുള്ള കറന്റ് ഇവിടെ I1 hat ആയിരിക്കും അതായത് y12 × V2 hat കൂടാതെ ഈ കറന്റു I2 ആയി നിർവചിക്കാം അതിനാൽ ഈ ഫോമിൽ y പാരാമീറ്ററുകളിൽ ഒരു പോർട്ടിലെ ഷോർട്ട് സർക്യൂട്ട് ആയ കറന്റും അപ്ലൈ വോൾട്ടേജും തമ്മിലുള്ള അനുപാതം പോർട്ടിലെ ഷോർട്ട് സർക്യൂട്ട് കറന്റിന് തുല്യമാണെന്ന് പറയുന്നു അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് പോർട്ടിലെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് രണ്ട് വോൾട്ടേജുകളുടെ അനുപാതം പോർട്ട് ഒന്നിൽ ബാധകമാണ് ഇതാണ് y21 I1 hat V2 hat ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം രണ്ട് പോർട്ട് പാരാമീറ്ററുകൾ നിങ്ങൾ അളക്കുന്ന കാര്യത്തിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ഓപ്പൺ സർക്യൂട്ടുകളിലും ഷോർട്ട് സർക്യൂട്ടുകളിലുമുള്ള വോൾട്ടേജുകളുടെയോ കറന്റുകളുടെയോ അനുപാതം ഉണ്ടായിരിക്കും അതിനാൽ ആ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് റെസിപ്രൊസിറ്റി ഉപയോഗിക്കാൻ കഴിയണം റെസിപ്രോസിറ്റി എന്നാൽ പോർട്ട് രണ്ടിലെ ഷോർട്ട് സർക്യൂട്ട് കറന്റും പോർട്ട് ഒന്നിലെ അപ്ലൈഡ് വോൾട്ടേജും തമ്മിലുള്ള അനുപാതം പോർട്ട് ഒന്നിലെ ഷോർട്ട് സർക്യൂട്ട് കറന്റും പോർട്ട് രണ്ടിലെ അപ്ലൈഡ് വോൾട്ടേജും തമ്മിലുള്ള അനുപാതം എന്നതാണ് ഇപ്പോൾ ഇത് തികച്ചും റെസിസ്റ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾക്ക് ശരിയാണ് അതിനാൽ ഷോർട്ട് സർക്യൂട്ട് കറന്റുകളുടെ കാര്യത്തിൽ ഇത് റെസിപ്രൊസിറ്റിയുടെ ഒരു പ്രത്യേക പ്രസ്താവനയാണ് ഇപ്പോൾ സമാനമായി z12 z21 എന്ന z പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാം അതിനാൽ നിങ്ങൾ z21 അളക്കുമ്പോൾ നിങ്ങൾ ഒരു കറന്റ് പോർട്ട് ഒന്ന്ൽ പ്രയോഗിക്കുകയും പോർട്ട് രണ്ടിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അളക്കുകയും ചെയ്യും നിങ്ങൾ z12 അളക്കുന്നു നിങ്ങൾ കറന്റ് പോർട്ട് രണ്ടിൽ പ്രയോഗിക്കുകയും പോർട്ട് ഒന്നിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അളക്കുകയും ചെയ്യുന്നു ഈ പ്രസ്താവനയിലൂടെ നമ്മളുടെ റെസിപ്രൊസിറ്റി അർത്ഥമാക്കുന്നത് V2 I1 V1 hat I2 hat എന്നാണ് അതിനാൽ ഇവിടെ നിങ്ങൾ പോർട്ട് ഒന്നിൽ കറന്റ് പ്രയോഗിച്ചാലും പോർട്ട് രണ്ടിൽ വോൾട്ടേജ് അളന്നാലും അല്ലെങ്കിൽ പോർട്ട് രണ്ടിൽ കറന്റ് പ്രയോഗിച്ചാലും പോർട്ട് ഒന്നിലെ കറന്റ് അളന്നാലും പ്രയോഗിച്ച കറന്റുമായുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിന്റെ അനുപാതം ഒന്നുതന്നെയാണ് h പാരാമീറ്ററുകൾ ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യുന്നു നിങ്ങൾക്ക് h12 നു തുല്യമായ h21 ഉണ്ടായിരിക്കും നിങ്ങൾ h21 അളക്കുമ്പോൾ ഇത് എന്റെ റെസിസ്റ്റീവ് പോർട്ട് രണ്ട് ആണ് നിങ്ങൾ കറന്റ് പോർട്ട് ഒന്നിൽ കൂടുകയും പോർട്ട് രണ്ട് ഷോർട്ട് സർക്യൂട്ട് പ്രയോഗിക്കുകയും പോർട്ട് രണ്ടിൽ കറന്റ് അളക്കുകയും ചെയ്യും നിങ്ങൾ h12 അളക്കുമ്പോൾ പോർട്ട് രണ്ടിലേക്ക് ഒരു വോൾട്ടേജ് പ്രയോഗിക്കുകയും പോർട്ട് ഒന്നിൽ ഓപ്പൺ സർക്യൂട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും ആ ഓപ്പൺ സർക്യൂട്ടിലെ വോൾട്ടേജ് തീർച്ചയായും അളക്കും ഇത് I2 I1 V1 hat V2 hat അതിനാൽ അടിസ്ഥാനപരമായി പോർട്ട് ഒന്ന് മുതൽ പോർട്ട് രണ്ട് വരെയുള്ള കറണ്ട് അത് പോർട്ട് നൽകിയിരിക്കുന്നു ഇത് പോർട്ട് രണ്ടിൽ നിന്ന് പോർട്ട് ഒന്നിലേക്ക് നേടിയ വോൾട്ടേജിന്റെ നെഗറ്റീവ് ആണ് അതിനാൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ചിഹ്നം ലഭിക്കും നിങ്ങൾ കറന്റുകളുടെ ദിശ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിപരീത ദിശയിലായിരിക്കാൻ കറന്റ് തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നു എന്നാൽ നമ്മൾ എല്ലായ്പ്പോഴും രണ്ട് പോർട്ട് പാരാമീറ്റർ നിർവചനങ്ങളുമായി പൊരുത്തപ്പെടുന്ന നിലവിലെ ദിശ തിരഞ്ഞെടുക്കുന്നു അതിനാൽ നമുക്ക് ഈ I2 I1 എന്നത് V1 hat V2 hat ലഭിക്കുന്നു g പാരാമീറ്ററുകൾ നമ്മൾക്ക് g12 g21 വേണം എനിക്ക് രണ്ട് പോർട്ട് ഉണ്ട് ഞാൻ g21 അളക്കുമ്പോൾ പോർട്ട് ഒന്ന് ലേക്ക് ഒരു വോൾട്ടേജ് പ്രയോഗിക്കുകയും പോർട്ട് രണ്ടിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അളക്കുകയും ചെയ്യും g12 അളക്കുമ്പോൾ ഞാൻ പോർട്ട് രണ്ടിലേക്ക് ഒരു കറന്റ് പ്രയോഗിക്കുകയും പോർട്ട് ഒന്ന് വഴി ഷോട്ട് സർക്യൂട്ട് കറന്റ് അളക്കുകയും ചെയ്യും പോർട്ട് ഒന്ന് മുതൽ പോർട്ട് രണ്ട് വരെയുള്ള വോൾട്ടേജ് നേട്ടം ഇത് സൂചിപ്പിക്കുന്നു കൂടാതെ ഈ വോൾട്ടേജ് നേട്ടം ഒരു ഓപ്പൺ സർക്യൂട്ട് ടെർമിനേഷൻ ഉപയോഗിച്ച് അളക്കുന്നു അത് പോർട്ട് രണ്ട് മുതൽ പോർട്ട് ഒന്ന് വരെയുള്ള നെഗറ്റീവ് കറന്റ് നേട്ടം ആണ് അത് ഷോർട്ട് സർക്യൂട്ട് ടെർമിനേഷൻ ഉപയോഗിച്ച് അളക്കുന്നു നമ്മൾ നിർവചിച്ച രണ്ട് പോർട്ട് പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം റെസിപ്രൊസിറ്റി സൂചിപ്പിക്കുന്നതാണ് എന്നാൽ റെസിപ്രൊസിറ്റിയുടെ പ്രധാന ഉപയോഗം പ്രത്യേക സ്രോതസ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനകം ചില ഫലങ്ങൾ അറിയാമെന്ന് ഉള്ളതാണ് അതിനാൽ നെറ്റ്വർക്കും അതിൽ റെസിസ്റ്ററുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പറയട്ടെ എനിക്ക് ഒറ്റ സ്വതന്ത്ര സ്രോതസ്സ് ഉണ്ടെന്ന് പറയട്ടെ അവിടെ ഞാൻ അത് വോൾട്ടേജ് സ്രോതസ്സ്ലേക്ക് പരിഗണിക്കും ഈ കേസ് നിങ്ങൾ ഇതിനകം പരിഹരിച്ചുവെന്ന് പറയട്ടെ ഈ രണ്ട് നോഡുകൾക്കിടയിൽ ഞാൻ ഇവിടെ V1 പ്രയോഗിച്ചാൽ എനിക്ക് പ്രത്യേക V2 ലഭിക്കുമെന്ന് എനിക്കറിയാം റെസിപ്രൊസിറ്റി എന്താണ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നത് നിങ്ങൾക്ക് ബദൽ സാഹചര്യമുണ്ടെന്ന് പറയട്ടെ ഉദാഹരണത്തിന് ഞാൻ നോഡിനെ b നോഡ് എന്ന് വിളിക്കാം കൂടാതെ നോഡിന് ഇടയിൽ ഒരു റെസിസ്റ്റർ ഉണ്ട് അതിനാൽ വോൾട്ടേജ് സോഴ്സ് V1 സർക്യൂട്ടിനും നോഡുകൾക്കിടയിൽ ഒരു നോഡ് ബി മാറ്റി ചെയ്യുന്ന മറ്റൊരു സാഹചര്യം ഉണ്ടെന്ന് പറയാം നമ്മൾക്ക് വോൾട്ടേജ് സ്രോതസ്സ് ഉള്ളതിനാൽ നമ്മൾ അതിനെ V2 hat എന്ന് വിളിക്കട്ടെ V1 പ്രയോഗിക്കുമെന്ന് എനിക്ക് ഇതിനകം തന്നെ അറിയാം V2 എന്നത് a b എന്നിവയിൽ ഉടനീളം ദൃശ്യമാകുന്നു ഒപ്പം വ്യക്തമായും റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന ഈ കറന്റ് നിങ്ങൾക്കറിയാം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് ഉള്ള ഒരു സാഹചര്യമോ ബദൽ സാഹചര്യമോ ഉണ്ടെന്ന് പറയട്ടെ വോൾട്ടേജ് ഉറവിടം a യ്ക്കും b യ്ക്കും ഇടയിൽ ആണ് എന്നും എനിക്ക് സമാന്തരമായി ഒരു കറണ്ട് സ്രോതസ്സ് ഉണ്ട് ഞാൻ അതിനെ I2 hat എന്ന് വിളിക്കട്ടെ ഈ I1 hat ഇവിടെ എത്ര കറന്റ് ആണെന്ന് എനിക്കറിയണം അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ I1 hat നു വേണ്ടി വീണ്ടും സർക്യൂട്ട് പരിഹരിക്കേണ്ടതില്ല ഇത് പോർട്ട് ഒന്ന് ആണെന്നും ഇവിടെയുള്ള ഈ ലിങ്ക് പോർട്ട് രണ്ട് ആണെന്നും പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ കെയ്സ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കേണ്ട പോർട്ടും ഈ കറന്റും ആയി കണക്കാക്കാം ഞാൻ ഇത് ശരിക്കും കറണ്ട് പോർട്ട് രണ്ട് എന്ന് അടയാളപ്പെടുത്തി ഞാൻ ഇത് റെസിസ്റ്ററിന് മുകളിൽ അടയാളപ്പെടുത്തി എന്നാൽ ഇപ്പോൾ രണ്ട് പോർട്ടുകളുടെയും റെസിസ്റ്റർ ഭാഗം അത് ശരിക്കും പോർട്ട് കറന്റാണ് അതിനാൽ ഇപ്പോൾ വ്യക്തമായി ഈ V2 hat അവിടെയുള്ള രണ്ടാമത്തെ പോർട്ടിനും ആദ്യത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ടിനും ബാധകമാണ് അതിനാൽ കൂടുതൽ കണക്കുകൂട്ടലുകളൊന്നും നടത്താതെ എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന I1 hat V2 hat × ഇവിടെയുള്ള hat അനുപാതം I V1 ആണ് ഇത് y21 അല്ലാതെ മറ്റൊന്നുമാകില്ല അത് രണ്ടാമത്തെ പോർട്ട് ആണ് അതുപോലെ ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ കേസിനെ യഥാർത്ഥ കേസുമായി ബന്ധപ്പെടുത്താം രണ്ട് പോർട്ടുകളായി മറ്റെന്തെങ്കിലും നിർവചിക്കുന്നതിലൂടെ ഈ പോർട്ടിനെ മുമ്പത്തെപ്പോലെ തന്നെ ഇപ്പോൾ വിളിക്കാം ഇപ്പോൾ ഞാൻ നോട് a ക്കും b ക്കും ഇടയിലുള്ള രണ്ടാമത്തെ പോർട്ട് നിർവചിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അടിസ്ഥാനപരമായി ഈ V2 V1 ഒന്നുമല്ല പക്ഷേ g21 ആണ് ഈ പോർട്ട് രണ്ട് ഓപ്പൺ സർക്യൂട്ട് ആണ് അവിടെ മറ്റൊന്നും ബന്ധിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഈ പോർട്ട് ഒന്ന് ഷോർട്ട് സർക്യൂട്ടഡ് ആണ് ഇതാണ് ഈ കറണ്ട് I2 hat പ്രയോഗിക്കുന്ന പോർട്ട് രണ്ട് അതിനാൽ g പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും റെസിപ്രൊസിറ്റി ഉപയോഗിച്ച് എനിക്ക് I1 hat കണ്ടെത്താനാകും I1 hat I2 hat × V2 V1 ന്റെ നെഗറ്റീവ് ആണെന്ന് കണ്ടെത്താനാകും ഇവിടെ V2 V1 ഒന്നുമല്ല എന്നാൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് പോർട്ടുകൾക്കിടയിലുള്ള g21 ആണ് ഇവിടെ എനിക്ക് വേണ്ടത് g12 ആണ് അത് g21 ന്റെ നെഗറ്റീവ് ആണ് അതിനാൽ ഇതാണ് റെസിപ്രൊസിറ്റി തിയറം പോയിന്റ് രണ്ട് പോർട്ട് നെറ്റ്വർക്കിൽ നിർവചിച്ചിരിക്കുന്ന എന്തെങ്കിലും നമ്മൾ അവതരിപ്പിക്കേണ്ടതില്ല നിങ്ങൾ ഇവിടെ വോൾട്ടേജ് പ്രയോഗിക്കുകയും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുകയും ചെയ്യുന്നതുപോലുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കാം അല്ലെങ്കിൽ ഈ വശത്ത് വോൾട്ടേജ് ബാധകമാണ് ആ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് ദൃശ്യമാകുന്നത് തുടങ്ങിയവ നിങ്ങൾക്ക് റെസിപ്രൊസിറ്റി ഉപയോഗിക്കാം നിങ്ങളുടെ രണ്ട് പോർട്ടിൽ നിർവ്വചിക്കാം ഈ കേസിൽ പ്രത്യേകിച്ചും അത് ഉപയോഗപ്രദമാകും അതിനാൽ നമുക്ക് ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിൽ വോൾട്ടേജ് അളക്കുന്നതായും പറയട്ടെ ഈ സർക്യൂട്ടുകളിൽ നമുക്ക് റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടെ കറണ്ട് സ്രോതസ്സുകളും വോൾട്ടേജ് സ്രോതസ്സുകളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നിരവധി സ്രോതസ്സുകൾ ഉണ്ടെന്ന് പറയട്ടെ നമുക്ക് ഒന്നിലധികം സ്രോതസ്സുകളുള്ള സർക്യൂട്ടാണിത് ഇപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ടിലേക്കുള്ള ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇതിനെ V2 V3 V4 V5 എന്ന് വിളിക്കട്ടെ അതിനാൽ ഇപ്പോൾ ഈ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ഈ Vx കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ചിലർക്ക് × ഈ പ്രശ്നം പരിഹരിക്കാൻ എളുപ്പമായിരിക്കും I1 ൽ നിന്ന് ഇതിലേക്കുള്ള കൈമാറ്റം മറ്റ് സ്രോതസ്സുകൾ എന്നിവയെല്ലാം ഈ പോയിന്റിന് തുല്യമായിരിക്കും അതിനാൽ ഇപ്പോൾ ഈ Vx ഈ എല്ലാ സ്രോതസ്സുകളുടെയും ലീനിയർ സംയോജനമാണ് അതിനാൽ ഞാൻ അതിനെ k1 × I1 k2 × I2 k3 × V3 k4 × V4 k5 × V5 എന്ന് വിളിക്കാം കാരണം ഇതാണ് വോൾട്ടേജ് ഇവ രണ്ടും കറന്റുകൾ k1 ഉം k2 ന് പ്രതിരോധത്തിന്റെ ഡയമെൻഷൻ ഉണ്ടായിരിക്കും കൂടാതെ k3 k4 k5 എന്നിവ ഡയമെൻഷൻ ലെസ് ആയിരിക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ റെസിപ്രൊസിറ്റി ഉപയോഗിക്കും നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ടായ വോൾട്ടേജ് സ്രോതസ്സുകളെല്ലാം നിർജ്ജീവമാക്കുകയും എല്ലാ കറന്റ് സ്രോതസ്സുകളും ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇത് I3 hat I4 hat I5 hat ഉം V1 ഉം V2 ഉം ആണെന്ന് നിർവചിക്കാം കറന്റ് സ്രോതസ്സുകളും വോൾട്ടേജ് സ്രോതസ്സുകളും ഞാൻ ഇതിനകം ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പോർട്ട് കൺവെൻഷനുമായി ദിശകൾ പൊരുത്തപ്പെടുന്നു ഇപ്പോൾ യഥാർത്ഥ സർക്യൂട്ടിൽ ഇത് ഓപ്പൺ സർക്യൂട്ടിൽ അവസാനിപ്പിച്ചതിനാൽ ഞാൻ ഒരു കറന്റ് സോഴ്സ് Ix hat പ്രയോഗിച്ച് വിശകലനം ചെയ്യും ഇപ്പോൾ ഇതിന്റെ പ്രയോജനം എന്തെന്നാൽ വിശകലനത്തിൽ നമുക്ക് ഒറ്റ സ്രോതസ്സ് ഉണ്ട് ഇത് ഇപ്പോൾ നടപ്പിലാക്കാൻ വളരെ എളുപ്പമാണ് നൽകിയിരിക്കുന്നത് I1 hat എന്നത് k1 × Ix hat ഈ V2 എന്നത് hat k2 × Ix hat ആയിരിക്കും ഈ I3 hat എന്നത് k3 × Ix hat ആയിരിക്കും ഈ I4 hat എന്നത് k4 Ix hat ആയിരിക്കും I5 hat എന്നത് k5 × Ix hat ആയിരിക്കും ഞാൻ ആദ്യം ചെയ്തത് ഇതും അതും രണ്ട് പോർട്ട് ആയി കണക്കാക്കുകയും z പാരാമീറ്ററുകളുടെ പതിപ്പ് ഉപയോഗിക്കുകയും ആണ് തുടർന്ന് ഇതും രണ്ട് പോർട്ട് z പാരാമീറ്ററുകൾ പതിപ്പിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുക തുടർന്ന് ഇതും ഇതും രണ്ട് പോർട്ട് ആയി ഉപയോഗിക്കുകയും g ഉപയോഗിക്കുകയും ചെയ്തു അതിനാൽ എനിക്ക് ഈ അനുപാതങ്ങൾ ലഭിക്കുന്നു പോയിന്റ് സിംഗിൾ സോഴ്സ് ഉപയോഗിച്ച് സർക്യൂട്ട് വിശകലനം ചെയ്തു ലീനിയർ കോമ്പിനേഷൻ k1 k2 k3 k4 k5 ന്റെ ഈ ഗുണകങ്ങൾ ലഭിക്കുന്നു അതിനാൽ ചില സാഹചര്യങ്ങളിൽ റെസിപ്രൊസിറ്റി ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം ഇതാണ് സർക്യൂട്ട് വിശകലനത്തിൽ ഇത് പൊതുവെ നോയിസ് അനാലിസിസ് എന്ന് അറിയപ്പെടുന്നു സർക്യൂട്ടിലെ എല്ലാ റെസിസ്റ്ററുകളും സർക്യൂട്ടിലെ ഏത് ഘടകവും നോയ്സ്നെ ട്രേഡ് ചെയ്യുന്നു കൂടാതെ നിങ്ങൾ ഓരോ നോയ്സ് സ്രോതസ്സിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണക്കാക്കുകയും അത് യഥാർത്ഥ നോയ്സ് ആയിട്ട് ഗുണിക്കുകയും വേണം അങ്ങനെ ഔട്ട്പുട്ട് നോയ്സ് സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മുഴുവൻ ചിത്രവും തിരിയാനും ഔട്ട്പുട്ടിൽ ഒരു എക്സൈറ്റേഷൻ പ്രയോഗിക്കാനും ലളിതമാണ് കൂടാതെ ഓരോ റെസിസ്റ്ററുകളുടെയും സ്ഥാനത്ത് ദൃശ്യമാകുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷനായിരിക്കണം അത് ട്രാൻസ്ഫർ ഫംഗ്ഷന് തുല്യമാണ് അതായത് ഔട്ട്പുട്ടിനുള്ള റെസിസ്റ്റൻസ് കൂടാതെ ഈ റെസിപ്രൊസിറ്റി ഉപയോഗിച്ച് സിമുലേറ്ററിന് നോയ്സ് ഫംഗ്ഷനുകളായി വളരെ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയും അതിനാൽ അത് അതിന്റെ പ്രയോഗമാണ്